ശരി ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തി അതിനാൽ അടുത്തത് ലീഡിംഗ് പവർ ഫാക്ടർ ലോഡ് ആണ് ഞങ്ങൾ ലാഗിംഗ് പവർ ഫാക്ടർ ലോഡ് ചെയ്തു അതേ രീതിയിൽ തന്നെ നമ്മൾ ലീഡിങ് പവർ ഫാക്ടർ ചെയ്യും ഈ സാഹചര്യത്തിൽ കറന്റ് ലീഡിങ് ആണ് E 2 2 I ഇത് നോക്കൂ ദയവായി ഇത് ചെയ്യുക ഞാൻ ഏകദേശരൂപം ഉണ്ടാക്കി അതിനാൽ ഇത് നിലവിലുള്ളത് IV2 ആണ് അതിനാൽ I2 കറന്റ് മുന്നിലാണ് വോൾട്ടേജ് I2 മുൻനിര വോൾട്ടേജ് V 2 ആണ് അതിനാൽ ഇത് E2 ആണ് അതിനാൽ ഈ ആംഗിൾ I ആംഗിൾ ∅ 2 I2 നും V2 നും ഇടയിലാണ് കൂടാതെ angleδ E2 നും V2 നും ഇടയിലാണ് എല്ലാം വ്യക്തമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ തിരശ്ചീന പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത് എടുക്കുക അതിനാൽ E 2 cosδ V2 ആയിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഈ E2 cos ആയിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ എടുക്കുന്നതെന്തും അതിനാൽ E 2 E 2 cos V2 ആയിരിക്കും ആദ്യം ഇത് ഈ V2 ആക്കുക ഇത് I2 R e 2 cos ∅ 2 ആണ് കാരണം ഈ ആംഗിൾ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു ∅ 2 ഇത് ഇതുപോലെയാണ് അതിനാൽ അതിന്റെ പ്രൊജക്ഷൻ എടുക്കുക അതിനാൽ അത് കുറയ്ക്കേണ്ടതായി വരും അതിനാൽ ഇത് I2 X e 2 sin ∅ 2 ആയിരിക്കും കാരണം E 2cosδ ആണ്കണ്ടെത്തേണ്ടത് അതിനാൽ ഇത് ആദ്യം V2 ആക്കും ഇത് എത്രയാണെന്ന് ഇത് കണ്ടെത്തും അതിനാൽ ഇത് I2 X e 2 sin ∅ 2 അതിനാൽ അതും നമ്മൾ δ 0 എന്ന് അനുമാനിക്കുന്നു അതിനാൽ cos δ 1 അതിനാൽ E 2 V2 V2 അതേ രീതിയിൽ തന്നെ നമ്മൾ I2 V2 R e 2 cos ∅ 2 X e 2 sin ∅ 2 ചെയ്യും അതിനാൽ V2 0 V2V2 യഥാർത്ഥത്തിൽ Z V2 V2I2 പോലെ തന്നെ ആയിരിക്കും അതിനാൽ ഒരു യൂണിറ്റിന് R e 2 ലഭിക്കും cos ∅ 2 X e 2 per unit sin∅ 2 അതിനാൽ ലാഗിംഗ് പവർ ഫാക്ടർ ചിഹ്നം എന്ന് പൊതുവായി വിളിക്കുകയാണെങ്കിൽ ലീഡിംഗ് പവർ ഫാക്ടർ ചിഹ്നമാണ് മറ്റൊരു കാര്യം അതിനെ വിളിച്ചാൽ ഐക്യ പവർ ഫാക്ടർ എന്നെ അതിലേക്ക് പോകാൻ അനുവദിക്കുക ഐക്യ പവർ ഫാക്ടർ നിയന്ത്രണം ലോഡുചെയ്യുന്നു ഇവിടെ ഇതാ അതിനർത്ഥം ഇവിടെയും ഇവിടെ നോക്കുക ഇത് അറിയാൻ കഴിയും R e 2 V2 2 I2 കൊണ്ട് ഹരിച്ചാൽ അതിനാൽ ഇത് R e 2 നെ Z B 2 കൊണ്ട് ഹരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ യൂണിറ്റിന് R e 2 ഉം യൂണിറ്റി പവർ ഫാക്ടർ ലോഡും ആയതിനാൽ cos ∅ 1 അതിനാൽ അതിനർത്ഥം പൊതുവെ ഒരു ട്രാൻസ്ഫോർമറിന്റെ വോൾട്ടേജ് നിയന്ത്രണത്തിന്റെ നിയന്ത്രണ സൂത്രവാക്യം എന്നാണ് അതിനാൽ പൊതുവേ ഞാൻ ഇത് ഇവിടെ ഇപ്രകാരം ചെയുന്നു അത് R e 2 ആയിരിക്കും തുടർന്ന് ഓരോ യൂണിറ്റിനും cos ∅ 2 എനിക്ക് X e 2 per unit sin∅ 2 എന്ന് എഴുതാൻ കഴിയും ഇത് ഒരു ലാഗിംഗ് പവർ ഫാക്ടർ ആണെങ്കിൽ അത് ഒരു ഐക്യ പവർഫാക്ടർ ആണെങ്കിൽ cos∅ 2 1 ഉം sin∅ 2 0 ഉം ആണ് അതിനാൽ ∅ 2 0 ഇത് യൂണിറ്റിന് R e 2 മാത്രമായിരിക്കും അല്ലെങ്കിൽ ഇത് ഒരു ലാഗിംഗ് പവർ ഫാക്ടർ ആണെങ്കിൽ ഇത് ഈ പദം ആയിരിക്കും ഇത് ഒരു പ്രമുഖ പവർ ഫാക്ടറാണെങ്കിൽ അത് ആയിരിക്കും ഇത് പൊതുവെ മനസ്സിൽ സൂക്ഷിക്കണം അതിനാൽ ഈ സൂത്രവാക്യം മാത്രം ഓർക്കുന്നുവെങ്കിൽ ഈ സമവാക്യം അതിനാൽ ഐക്യ പവർ ഫാക്ടർ ∅ 2 0 ആണ് ലാഗിംഗ് പവർ ചെയ്യുന്നതിന് ആ ചിഹ്നം ആയിരിക്കണം കൂടാതെ പവർ ഫാക്ടർ ചിഹ്നം പ്രമുഖമായിരിക്കണം അടുത്തത് പോളാരിറ്റി ടെസ്റ്റ് ആണ് ലബോറട്ടറിയിലെ പോളാരിറ്റി എപ്പോൾ ചെയ്യുമെന്ന് ആണ് എങ്ങനെ കൈമാറ്റം ചെയ്യുന്നു തീർച്ചയായും ഇത് ചെയ്യും അതിനാൽ ഇത് പോളാരിറ്റി ടെസ്റ്റ് ആണെന്ന് കരുതുക അതിനാൽ 1 a 2 ലോ വോൾട്ടേജ് വിൻഡിംഗും മൂലധനം A 1 ക്യാപിറ്റൽ A 2 ഉം ഉയർന്ന വോൾട്ടേജ് വിൻഡിംഗ് ആണ് ഈ കാര്യം നൽകിയിരിക്കുന്നു അതിനാൽ ഒരു കാര്യം ഉണ്ട് ഈ ധ്രുവത 1 a 2 പോലെയല്ലെന്ന് കരുതുക അത് a 2 is here is ഇവിടെ മൂലധനം A 2 ഉം മൂലധനം A 1 ഉം ആണ് ഈ വോൾട്ടേജ് V1 V1 ആണ് ഇത് V2 V2 ആണ് വോൾട്ട്മീറ്ററിൽ മൂലധനം A 1 ലും ചെറിയ 1 1 ലും ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതാണ് ഇപ്പോൾ ധ്രുവീയത ഇപ്പോൾ V 1 ആണെങ്കിൽ അത് വ്യത്യസ്ത ഓപ്പറേറ്ററാണ് ഞാൻ V 1 ഉപയോഗിക്കുന്നു ഇത് തീർച്ചയായും വ്യത്യാസമാണ് ഒരു വ്യത്യാസ ഓപ്പറേറ്റർ V 2 എന്തിന് എന്തുകൊണ്ടാണ് ഞാൻ ഈ ചിഹ്നം ഉണ്ടാക്കിയത് ഇതിനാലാണ് ഞാൻ ഒരു ചെറിയ പരിശീലനം നൽകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ V 1 വ്യത്യാസം അല്ലെങ്കിൽ V 2 വ്യത്യാസം ഓപ്പറേറ്റർ എഴുതുന്നത് ഇത് യഥാർത്ഥത്തിൽ ടിൽഡ് പോലെയാണ് അതിനാൽ ഇത് ഇതുപോലെ ആണെങ്കിൽ എഴുതിയിരിക്കുന്നു പിന്നെ വളയത്തിന്റെ ധ്രുവങ്ങൾ രേഖാചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇതുപോലെ ലഭിക്കുകയാണെങ്കിൽ പക്ഷെ ഞാൻ എന്തിനാണ് വ്യത്യസ്ത ഓപ്പറേറ്റർ ഉപയോഗിച്ചത് എന്നിട്ട് അത് അടയാളപ്പെടുത്തിയിരിക്കുന്ന ധ്രുവീയതയ്ക്ക് രേഖലേഖത്തിൽ അത് അതേപടി നിലനിൽക്കും ഇത് മാറില്ല വോൾട്ട്മീറ്ററിന്റെ വ്യാഖ്യാനം ലഭിക്കുന്നത് ഇതുപോലെയാണെങ്കിൽ മാറ്റമില്ല പക്ഷേ ഞാൻ വ്യത്യാസ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടോ V V1 V2 ലഭിക്കുകയാണെങ്കിൽ അതിനാൽ V1 V1 1 V 2 ലഭിക്കുകയാണെങ്കിൽ എല്ലാം യഥാർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്നു അപ്പോൾ ഒരു വിൻഡിംഗിന്റെ ധ്രുവീയ സീമകൾ ഈ വശത്തോ ഈ വശത്തോ പരസ്പരം കൈമാറ്റം ചെയ്യണം പരസ്പരം കൈമാറുക V V 1 V 2 ലഭിക്കുകയാണെങ്കിൽ ഇത് കൂട്ടിചേർക്കപ്പെട്ട ത് ആണെങ്കിൽ അതിനാൽ ഒരു വിൻഡിംഗിന്റെ ധ്രുവീയ അടയാളങ്ങൾ പരസ്പരം മാറ്റണം അതിനാൽ ഇതെല്ലാം പോളാരിറ്റി ടെസ്റ്റി നായി യഥാർത്ഥത്തിൽ ഒന്നും ഇല്ല ഇപ്പോൾ R c X m എന്നിവ ലഭിക്കുന്നതിന് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയുക അതിനർത്ഥം ട്രാൻസ്ഫോർമറിനായി പാരാമീറ്റർ കണ്ടെത്തണം പ്രത്യേകിച്ച് R c X m R1 X1 R2 X2 ഇവയെല്ലാം കണ്ടെത്തണം അതിനാൽ സാധാരണയായി R c X m എന്നിവ നേടുന്നതിനായി ഞങ്ങൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് നടത്തുന്നു ഇത് ഒരു ഷണ്ട് പാരാമീറ്റർ എന്ന് വിളിക്കുന്നു കാരണം ഇവ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവ ഷണ്ട് പാരാമീറ്ററുകളാണ് നമ്മൾ ഇവിടെ യഥാർത്ഥത്തിൽ ഓപ്പൺ സർക്യൂട്ട് പരിശോധന നടത്തും ഇപ്പോൾ ഓപ്പൺ സർക്യൂട്ട് പരിശോധനയ്ക്കായി നമ്മൾ ചെയ്യേണ്ടത് 1 അമീറ്റർ ഘടിപ്പിക്കേണ്ടതായി ഉണ്ട് 1 വോൾട്ട്മീറ്റർ ഇവിടെ ഉണ്ട് ഉയർന്ന വോൾട്ടേജ് വശം യഥാർത്ഥത്തിൽ പരീക്ഷണശാലയിൽ തുറന്നിരിക്കുന്ന ദ്വിതീയ വശമാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഇത് ഇരുവശത്തും നടപ്പിലാക്കാൻ കഴിയും എന്നാൽ പരീക്ഷണശാലയിൽ സാധാരണയായി LV ഭാഗത്ത് നിർവ്വഹിക്കുക ഉയർന്ന വോൾട്ടേജ് ഭാഗത്തല്ല അതിനാൽ ഇരുവശത്തും ഇത് ചെയ്യാൻ കഴിയും ഇരുവശത്തും ചിലപ്പോൾ വോൾട്ടേജ് ലെവൽ ലഭ്യമായേക്കില്ലെന്ന് കരുതുക ചിലപ്പോൾ ഉയർന്ന വോൾട്ടേജ് പരീക്ഷണശാലയിൽ ലഭ്യമായേക്കില്ല അതിനാലാണ് ഞങ്ങൾ ഓപ്പൺ സർക്യൂട്ട് ലോ വോൾട്ടേജ് ഭാഗത്ത്നടത്തുന്നത് അതിനാൽ ഓപ്പൺ സർക്യൂട്ട് പരിശോധനയ്ക്കുള്ള കുറഞ്ഞ വോൾട്ടേജ് വശമാണിത് എന്നാൽ ഉയർന്ന വോൾട്ടേജ് ഭാഗത്ത് ആണ് പരീക്ഷണശാലയിലെ ഷോർട്ട് സർക്യൂട്ട് പരിശോധന എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ അത് ഇരുവശത്തും ചെയ്യാം സമാന ഫലം ലഭിക്കും അതിനാൽ ഇത് അമ്മീറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു 1 വാട്ട്മീറ്റർ ബന്ധിപ്പിച്ചിരിക്കുന്നു 1 വോൾട്ട്മീറ്റർ ഇവിടെയുണ്ട് ഈ വൈദ്യുതി വിതരണചാലകശക്തി V 1 ആണ് അതിനാൽ l വോൾട്ടേജ് ഭാഗത്തേക്ക് വൈദ്യുതിവിതരണം നൽകുകയും പരീക്ഷണശാലയിൽ 110 220 വോൾട്ട് ഉണ്ടെന്ന് കരുതുകയും വേണം പരീക്ഷണശാലയിൽ ട്രാൻസ്ഫോർമർ 110 220 വോൾട്ട് ആണെന്ന് കരുതുക കുറഞ്ഞ വോൾട്ടേജ് വശം 110 വോൾട്ടും ഉയർന്ന വോൾട്ടേജ് വശമാണ് 220 വോൾട്ട് എന്ന് വിളിക്കുന്നത് കുറഞ്ഞ വോൾട്ടേജിൽ 110 വോൾട്ടിന് ഈ വശം 110 വോൾട്ട് നൽകിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ കുറഞ്ഞ വോൾട്ടേജ് വശം 110 വോൾട്ട് ആണെങ്കിൽ ഉയർന്ന വോൾട്ടേജ് വശം ട്രാൻസ്ഫോർമറിന് 2000 വോൾട്ട് 2 KV ഉണ്ടെന്ന് കരുതുക പരീക്ഷണശാലയിൽ 2 KV ലഭ്യമായേക്കില്ല കാരണം ഓപ്പൺ സർക്യൂട്ട് പരിശോധനയ്ക്ക് പൂർണ്ണ വോൾട്ടേജ് ആവശ്യമാണ് അതിനാലാണ് പരീക്ഷണശാലയിലെ കുറഞ്ഞ വോൾട്ടേജ് ഭാഗത്ത് ഓപ്പൺ സർക്യൂട്ട് പരിശോധന നടത്തുക എന്നാൽ ഇരുവശത്തും ഇത് സാധ്യമാണ് ഒരേ പാരാമീറ്ററുകൾ മൂല്യം R c X m എന്നിവ ഒരേ ഫലം ലഭിക്കുമെന്ന് ഞാൻ അർത്ഥമാക്കുന്നു അതിനാൽ വാട്ട്മീറ്റർ വ്യാഖ്യാനം യഥാർത്ഥത്തിൽ എന്താണ് ഈ സാഹചര്യത്തിൽ വാട്ട്മീറ്റർ ഈ വശം തുറന്നിരിക്കുന്നു അത് ദ്വിതീയമാണ് ദ്വിതീയത്തിൽ ലോഡ് ഇല്ല ഇത് ഓപ്പൺ സർക്യൂട്ട് എന്ന് എഴുതിയിരിക്കുന്നു അതിനാൽ വാട്ട്മീറ്റർ എന്ത് നൽകിയാലും അടിസ്ഥാനപരമായി ഇത് ഒരു പ്രധാന നഷ്ടം നൽകും കാരണം ഒരു ഓപ്പൺ സർക്യൂട്ട് ലോഡ് കറന്റ് വഹിക്കുന്നില്ല അമ്മീറ്റർ I0 നൽകും ലോഡ് കറന്റും വാട്ട്മീറ്ററും ലോഡ് പവർ നഷ്ടം നൽകില്ല വോൾട്ടേജ് 110 വോൾട്ട് നൽകുന്നുണ്ടോ അതിനാൽ ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നു അമ്മീറ്റർ ലോഡ് കറന്റ് I0 നൽകില്ല വോൾട്ട്മീറ്റർ പ്രയോഗിക്കും വോൾട്ടേജ് V1 ആണ് അതിനാൽ ഈ വാട്ട്മീറ്റർ വായന അറിയാം അമ്മീറ്റർ നിലവിലെ I0 അറിയാം വിതരണ വോൾട്ടേജ് V1 ഉം അറിയപ്പെടുന്നു അതിനാൽ ∅ 0 ലഭിക്കും അതിനാൽ V1 I0 cos ∅ 0 W i അതിനർത്ഥം cos ∅ 0 W i V1 I0 അത് ലോഡ് പവർ ഫാക്ടറല്ല അതിനാൽ കോസ് ∅ 0 ലഭിക്കുകയാണെങ്കിൽ കാണുക അതിനാൽ എനിക്ക് സി I0 കോസ് ∅ 0 ലഭിക്കും നമ്മൾ മുമ്പ് കണ്ടതാണ് I m നമുക്ക് I0 പാപം ലഭിക്കും ∅ 0 അത് ലഭിക്കും അതിനാൽ തുല്യമായ സർക്യൂട്ട് ഇത് R1 X1 എന്നിവയാണെന്ന് പറയുന്നു ഇതാണ് നിലവിലെ I0 ഈ വശം തുറന്നിരിക്കുന്നു അതിനെ സെക്കൻഡ് സൈഡ് ഓപ്പൺ സർക്യൂട്ട് എന്ന് വിളിക്കുന്നതിനെ വിളിക്കുക അതിനാൽ ഇവയ്ക്ക് ശേഷം ഒന്നും വരയ്ക്കില്ല ഒന്നും വരയ്ക്കില്ല R1 X1 എന്നിവ ഇവിടെ ഇടുക ഇതാണ് നിലവിലെ I0 അതിനാൽ R c എന്ന് വിളിക്കുന്നത് V1 I c ആയിരിക്കും കാരണം എനിക്ക് അത് ലഭിച്ചു കാരണം cos ∅ 0 ലഭിച്ചു I0 എനിക്കറിയാം cos ∅ 0 അറിയാം ഇപ്പോൾ R c V1 I c ആയിരിക്കും V1 I0 cos ∅ 0 അതുപോലെ X m V1 I m ആയിരിക്കും അതിനാൽ V1 I0 sin ∅ 0 യഥാർത്ഥത്തിൽ ഈ I0 കറന്റ് വളരെ ചെറുതാണ് കൂടാതെ ട്രാൻസ്ഫോർമറിന്റെ വിൻഡിംഗ് പ്രതിരോധവും വളരെ ചെറുതാണ് അതിനാൽ ലോഡ് ഇല്ലാത്ത ട്രാൻസ്ഫോർമറിലെ വിൻഡിംഗ് നഷ്ടം നിസാരമാണ് അതിനാൽ ഇതാണ് വൈദ്യുതിയുടെ പ്രവാഹപാത എന്നാൽ ഈ R1 X1 അത് അവഗണിക്കപ്പെടുന്നില്ലെന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് കാണുന്ന തുല്യമായ വൈദ്യുതിയുടെ പ്രവാഹപാത അതിനാൽ ലോഡില്ലാത്തതും അമ്പടയാളം അടയാളപ്പെടുത്തിയതുമായ എല്ലാം തുല്യമായ സർക്യൂട്ടാണിത് അതിനാൽ അത് I0 2 R1 ലോഡ് ചെമ്പ് നഷ്ടം വളരെ ചെറുതാണ് നിസാരമാണ് ഇവിടെ വാട്ട്മീറ്റർ വായന ഇരുമ്പ് അല്ലെങ്കിൽ കോർ നഷ്ടം മാത്രമേ നൽകുന്നുള്ളൂ അതിനാൽ ഓപ്പൺ സർക്യൂട്ട് പരിശോധനയ്ക്കായി എന്താണ് വിളിക്കേണ്ടത് ഇപ്പോൾ R1 j X1 ൽ ഉടനീളമുള്ള വോൾട്ടേജ് ഡ്രോപ്പ് വളരെ കുറവാണ് കാരണം I0 വളരെ ചെറുതാണ് അതിനാൽ ഇത് ഏകദേശ സർക്യൂട്ട് ആണ് ഇപ്പോൾ സീരീസ് പാരാമീറ്റർ ലഭിക്കാൻ അതായത് പ്രതിരോധവും പ്രതിപ്രവർത്തനവും കണ്ടെത്താൻ ഉള്ള ഹ്രസ്വ പരിവാഹ പരീക്ഷ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ട്രാൻസ്ഫോമറിൽ ഹ്രസ്വ പരിവാഹ പരീക്ഷ ആണ് ഹ്രസ്വ പരിവാഹ പരീക്ഷ ഉയർന്ന വോൾട്ടേജ് ഭാഗത്താണ് നടത്തുന്നത് കാരണം ഉയർന്ന വോൾട്ടേജ് ഭാഗത്തെ മൊത്തം വോൾട്ടേജിന്റെ 5 മുതൽ 8 ശതമാനം വരെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഹ്രസ്വ പരിവാഹ പരീക്ഷ നടത്തുമ്പോൾ റേറ്റുചെയ്ത വൈദ്യുതി അല്ലെങ്കിൽ പൂർണ്ണ ലോഡ് വൈദ്യുതി എന്ന് വിളിക്കുന്ന പ്രവാഹം സെക്കൻഡറി ലോ വോൾട്ടേജ് സൈഡ് ആണ് അതിനാൽ ആ നിരക്ക് e ഫുൾ ലോഡ് കറന്റ് പ്രവഹിക്കാൻ അല്ലെങ്കിൽ റേറ്റുചെയ്ത വൈദ്യുതി പ്രവഹിക്കാൻ അനുവദിക്കുന്നതിന് ഈ ഹ്രസ്വ പരിവാഹം ഈ കുറഞ്ഞ വോൾട്ടേജ് ഭാഗത്ത് ഉയർന്ന വോൾട്ടേജ് വശത്ത് റേറ്റുചെയ്ത വോൾട്ടേജിന്റെ 5 മുതൽ 8 ശതമാനം വരെ വളരെ ചെറിയ വോൾട്ടേജ് ആവശ്യമാണ് അതിനാൽ ഇത് വളരെ കുറഞ്ഞ വോൾട്ടേജ് വിതരണമായി ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് V s c ആണ് അതിനാൽ ഈ വിതരണം ഒരു r നായി നൽകിയിരിക്കുന്നു VARIAC എന്ന് വിളിക്കുന്ന ഒരു ഉപകരണത്തെ വിളിക്കുന്നത് വേരിയബിൾ റെസിസ്റ്റൻസ് സപ്ലൈ ഇത് ഇതുപോലെ നീക്കുകയാണെങ്കിൽ ഫ്യൂസ് പോകും കാരണം അത് വൈദ്യുതി ഉപയോഗിക്കും അതിനാൽ ഇത് ഷോർട്ട് സർക്യൂട്ട് വൈദ്യുതി ആയതിനാലാണ് ഇതാണ് വോൾട്ട്മീറ്റർ ബന്ധിപ്പിച്ചിരിക്കുന്നത് വാട്ട്മീറ്റർ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് അമ്മീറ്ററാണ് ഇത് കുറഞ്ഞ വോൾട്ടേജ് മൂല്യമുള്ള ഷോർട്ട് സർക്യൂട്ട് ഇത് ഹ്രസ്വമാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ റേറ്റുചെയ്തതിന്റെ 5 മുതൽ 8 ശതമാനം വരെ ആ ലോഡ് വൈദ്യുതി അല്ലെങ്കിൽ റേറ്റുചെയ്ത വൈദ്യുതി അനുവദിക്കേണ്ടതുണ്ട് അതിനാൽ ആവേശകരമായ വൈദ്യുതി ഹ്രസ്വ പരിവാഹ അവസ്ഥ പൂർണ്ണ ലോഡ് വൈദ്യുതി 0 5 ശതമാനം വരെയാണ് അതിനാൽ ആവേശകരമായ വൈദ്യുതി എന്നാൽ I0 അത് നിസാരമാണ് ട്രാൻസ്ഫർ പ്രതിരോധവും ചോർച്ച പ്രതിപ്രവർത്തനവും വളരെ ചെറുതാണ് റേറ്റ് ചെയ്ത വോൾട്ടേജിന്റെ 5 മുതൽ 8 ശതമാനം വരെ പൂർണ്ണ ലോഡ് വൈദ്യുതി പ്രചരിപ്പിക്കാൻ പര്യാപ്തമാണ് കാരണം ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ് കൂടാതെ ട്രാൻസ്ഫോർമർ പ്രതിരോധവും ചോർച്ച പ്രതിപ്രവർത്തനവും വളരെ ചെറിയ വലുപ്പമാണ് അതിനാൽ വാട്ട്മീറ്റർ വായന യഥാർത്ഥത്തിൽ ചെമ്പ് നഷ്ടം നൽകും ഈ അമ്മീറ്റർ വായന പൂർണ്ണ ലോഡ് കറന്റ് എന്ന് വിളിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ 110 220 വോൾട്ട് ആണെന്ന് കരുതുക അതിനാൽ 2 2 കെവിഎ ട്രാൻസ്ഫോർമർ ആണെങ്കിൽ ട്രാൻസ്ഫോർമർ എന്ന് പറയുക അതിനാൽ ഉയർന്ന വോൾട്ടേജ് വർഷം യഥാർത്ഥത്തിൽ 220 വോൾട്ട് അതിനാൽ ഹ്രസ്വ പരിവാഹ വോൾട്ടേജിന് 220 വോൾട്ടിന്റെ 5 മുതൽ 8 ശതമാനം വരെ ആവശ്യമാണ് അതായത് 5 മുതൽ 8 ശതമാനം വരെ 220 വോൾട്ടിന്റെ 5 ശതമാനം ഏകദേശം 11 വോൾട്ട് എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ 11 കോൾ വോൾട്ട് 11 വോൾട്ട് റേറ്റുചെയ്ത വൈദ്യുതി നൽകിയാൽ 2 2 കെവിഎ ട്രാൻസ്ഫോർമർ അതിനാൽ ഉയർന്ന വോൾട്ടേജ് വശം വോൾട്ടേജിന്റെ 2 2 1000 220 ആണ് അതിനാൽ 10 ആമ്പിയർ അതായത് ആമ്പിയർ വൈദ്യുതി പ്രവഹിക്കാൻ അനുവദിക്കും അഞ്ച് ശതമാനം 11 വോൾട്ട് ആണെങ്കിൽ അഞ്ച് അതിനാൽ ഏകദേശം 11 12 13അല്ലെങ്കിൽ വോൾട്ട് 10 ആമ്പിയർ വൈദ്യുതി പ്രവഹിക്കുന്നത് കണ്ടെത്തും അതിനാൽ ആ VARIAC അത് വളരെ സാവധാനത്തിൽ നീക്കണം അത് വളരെ വേഗത്തിൽ നീക്കുകയാണെങ്കിൽ തുടർന്ന് ഫ്യൂസ് ഓഫാകും വീണ്ടും വിളിക്കുന്നതിലേക്ക് വീണ്ടും സപ്ലൈ ഓഫ് ചെയ്യുകയും ഫ്യൂസ് വയർ വീണ്ടും ബന്ധിപ്പിക്കുകയും വേണം അതിനാൽ ഇത് ഒരു ട്രാൻസ്ഫോർമറിനായി പഠിച്ച തുല്യ സർക്യൂട്ട് vആണ് ഇത് ഷോർട്ട് സർക്യൂട്ട് കറന്റാണ് ഇത് I0 ആണ് എന്നാൽ ഇതിനെ ഈ I0 എന്ന് വിളിക്കുന്നത് ഐഎസ്സിയുടെ വളരെ ചെറിയ ശതമാനമാണ് അതിനാൽ ഈ പദം ഞങ്ങൾ അവഗണിക്കും R c യിലെ ഈ നഷ്ടം വാട്ട്മീറ്ററിലെ ഷോർട്ട് സർക്യൂട്ട് അവസ്ഥയിൽ തുല്യമായ സർക്യൂട്ട് വായിക്കുന്നതിൽ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ ഈ ഭാഗം കാരണം ഞാൻ ഈ ഘടകത്തെ ഇവിടെ നഷ്ടപ്പെടുത്തുന്നത് വളരെ നിസ്സാരമായിരിക്കും അതിനാൽ ഇത് ഒരു ലളിതമായ സർക്യൂട്ട് ആയിരിക്കും ലളിതമായ സീരീസ് സർക്യൂട്ട് അതിനാൽ R1 X1 R2 X2 എല്ലാം സീരീസിൽ ലഭിക്കും അതിനാൽ ഹ്രസ്വ പരിവാഹം അവസ്ഥയിൽ ഇത് ഏകദേശം തുല്യമാണ് അതിനാൽ വോൾട്ടേജ് V s c current Isc പവർ W s c അതാണ് ചെമ്പ് നഷ്ടം Isc പൂർണ്ണ ലോഡ് വൈദ്യുതിയും V s c വോൾട്ടേജുമാണ് ഹ്രസ്വ പരിവാഹ അവസ്ഥയിൽ 5 മുതൽ 8 ശതമാനം വരെ കുറഞ്ഞ വോൾട്ടേജ് ഭാഗത്തേക്ക് വീണ്ടും ബന്ധിപ്പിക്കാൻ ഞാൻ പറഞ്ഞത് അതിനർത്ഥം നമുക്ക് ലഭിക്കുന്ന ട്രാൻസ്ഫോർമറിന്റെ ഇംപെൻഡൻസായ Z ഇപ്പോൾ V s c Isc അതായത് R 2 X2 2 ന് മുകളിലുള്ള റൂട്ട് യഥാർത്ഥത്തിൽ R R1 R2 X X1 X2 X2 മറ്റൊരു കാര്യം അറിയാം Isc 2 R ചെമ്പിന്റെ നഷ്ടം വാട്ട്മീറ്റർ വ്യാഖ്യാനം കാരണം മൊത്തം R R1 R2 ആണ് അതിനാൽ വാട്ട്മീറ്റർ റീഡിംഗ് Isc 2 R W s c അതിനാൽ R W s c Isc 2 അതിനാൽ നമുക്ക് R1 R2 ലഭിക്കും ഈ മൂല്യങ്ങളെല്ലാം ഉയർന്ന വോൾട്ടേജ് ഭാഗത്തേക്ക് റഫർ ചെയ്യപ്പെടുന്നു കാരണം ഉയർന്ന വോൾട്ടേജ് ഭാഗത്ത് ഷോർട്ട് സർക്യൂട്ട് പരിശോധന നടത്തുന്നു അതിനാൽ ഇത് ഇവിടെ നമുക് ലഭിച്ചത് Z ആണ് അതിനാൽ ഇത് X 2 R 2 ന് മുകളിലൂടെ റൂട്ട് ചെയ്യുന്നതിന് തുല്യമാണ് എന്നാൽ Z എന്നത് X ഉം X1 X2 ഒരുമിച്ച് R ഉം R1 R2 ഒരുമിച്ച് പക്ഷേ ഞങ്ങൾ ഇത് എങ്ങനെ വേർതിരിക്കും അതിനാൽ പ്രാഥമിക ദ്വിതീയങ്ങളിൽ DC അളവെടുക്കുന്നതിലൂടെ സാധാരണയായി പ്രതിരോധം വേർതിരിക്കാനാകും കൂടാതെ AC മൂല്യങ്ങൾക്കായി ഇവ ശരിയാക്കുന്നു ഇത് ഞാൻ ഈ വീഡിയോ കോഴ്സിൽ ചെയ്യുന്നില്ല എന്നാൽ ട്രാൻസ്ഫോർമർ വിൻഡിംഗിന്റെ ഓരോ വശവും പ്രതിരോധം അളക്കാൻ ആവശ്യപ്പെട്ടാൽ പ്രതിരോധം എങ്ങനെ കണ്ടെത്താമെന്ന് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുവെന്ന് ഞാൻ പറയുന്നു പ്രാഥമിക ദ്വിതീയങ്ങളിൽ DC അളവെടുക്കുകയും AC മൂല്യങ്ങൾ ശരിയായി തിരുത്തുകയും ചെയ്യുന്നതിലൂടെ പ്രതിരോധത്തെ വേർതിരിക്കാനാകും ഇത് ഇപ്പോൾ സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കണം അതും രണ്ടാമത്തേത് മറ്റൊരു കാര്യം പ്രതിപ്രവർത്തനത്തെ അത്തരത്തിൽ വേർതിരിക്കാനാവില്ല എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് ഇവ പ്രാഥമിക ദ്വിതീയ വശങ്ങളുമായി തുല്യമായി കണക്കാക്കാം നന്നായി രൂപകൽപ്പന ചെയ്ത ട്രാൻസ്ഫോർമറിന് സാധാരണയായി പ്രതിപ്രവർത്തനം ഏത് വശത്തേക്കും സൂചിപ്പിക്കുന്ന X1 X2 ആണ് നന്നായി രൂപകൽപ്പന ചെയ്ത ട്രാൻസ്ഫോർമറിനും R1 R2 നും ഇത് മതിയായ കൃത്യതയുണ്ട് ഇത് അറിയാനുള്ള ഒരു പ്രശ്നം ഫോറത്തിൽ ഇടുക ഇത് ഞങ്ങളെ ഇത് ചെയ്യാൻ അനുവദിക്കുകയും ശരിയാണോ അല്ലയോ എന്ന് ഉത്തരം നൽകുകയും ചെയ്യാം അതിനാൽ സംഖ്യാശാസ്ത്രപരമായ മറ്റൊരു കാര്യം നമുക്ക് പിന്നീട് വരാം മറ്റൊരു കാര്യം ഓട്ടോട്രാൻസ്ഫോർമർ ആണ് അടിസ്ഥാനപരമായി അതിനെ വിൻഡിംഗ് ട്രാൻസ്ഫോർമർ എന്നാണ് വിളിക്കുന്നത് ഓട്ടോട്രാൻസ്ഫോർമറും മറ്റും ഇതുവരെ ഞാൻ സംസാരിച്ചതെന്തും ഞാൻ പറഞ്ഞ ചിലത് അറിയാം ഒരു ഉദാഹരണം ഒരു ഓട്ടോട്രാൻസ്ഫോർമർ എന്നല്ല അർത്ഥമാക്കുന്നത് എന്നാൽ ഞാൻ എടുത്ത ചില ഉപകരണ നാമം അതിനാൽ ഓട്ടോട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്ന ഓട്ടോട്രാൻസ്ഫോർമറിന്റെ ഒരു ഉദാഹരണം പറയൂ അതിനാൽ രണ്ട് വിൻഡിംഗ് ട്രാൻസ്ഫോർമറുകൾക്കായി ഞാൻ എഴുതിയ എന്തെങ്കിലും വിൻഡിംഗുകൾ വൈദ്യുതപരമായി ഒറ്റപ്പെട്ടു രണ്ട് വിൻഡിംഗ് ട്രാൻസ്ഫോർമറിൽ എല്ലാ വോൾട്ട് ആമ്പിയറുകളും കാന്തികമായി കൈമാറ്റം ചെയ്യപ്പെടുന്നു അവ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമറിനും കണ്ടു പ്രാഥമിക ദ്വിതീയ വിൻഡിംഗ് വൈദ്യുതമായി ബന്ധിപ്പിക്കുമ്പോൾ അതിനാൽ വിൻഡിംഗിന്റെ ആ ഭാഗം രണ്ടിനും സാധാരണമാണ് ട്രാൻസ്ഫോർമറിനെ ഓട്ടോട്രാൻസ്ഫോർമർ എന്ന് വിളിക്കുന്നു അതിനർത്ഥം യഥാർത്ഥത്തിൽ പ്രാഥമിക ദ്വിതീയ അതായത് വൈൽഡിംഗിന്റെ ആ ഭാഗവുമായി വൈദ്യുതമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇരുവർക്കും സാധാരണമാണ് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇതിനെ ഒരു ഓട്ടോട്രാൻസ്ഫോർമർ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ടേഴ്സ് വേരിയബിൾ വോൾട്ടേജ് പവർ സപ്ലൈ VARIAC എന്ന് ഇവിടെ എന്തെങ്കിലും എഴുതിയിരിക്കുന്നു ഞാൻ സൂചിപ്പിച്ചതും കുറഞ്ഞ വോൾട്ടേജും നിലവിലെ കുറഞ്ഞ വോൾട്ടേജും നിലവിലെ നിലകളും അതിനാൽ അടിസ്ഥാനപരമായി ഇതുപോലെ പരിഗണിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കണം ആശയക്കുഴപ്പം ഉണ്ടാകരുത് എന്തെങ്കിലും ചെയ്യുന്നതിനുമുമ്പ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത് 1 1 ഒരു വൈൻഡിങ് മാത്രമാണെങ്കിൽ ഒരു വൈൻഡിങ് മാത്രമേ കാണാനാകൂ ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് രണ്ട് വൈൻഡിങ് ട്രാൻസ്ഫോർമറാണെങ്കിൽ എന്തുചെയ്യും ഇത് ഒരു വൈൻഡിങ് ആയി കണക്കാക്കുന്നു ഇത് മറ്റൊരു ഒരു വൈൻഡിങ്പരിഗണിക്കുക രണ്ട് വൈൻഡിങ് ട്രാൻസ്ഫോർമറിനായി ഇത് 1 പോലെ ഈ രീതിയിൽ സങ്കൽപ്പിക്കുന്നതുപോലെ അതിനാൽ ഈ ഭാഗം പരിഗണിക്കുകയാണെങ്കിൽ അതിനാൽ ഇവിടെ പ്രവഹിക്കുന്നത് I1 ആണ് ഈ ഭാഗം പരിഗണിച്ചാൽ അത് I2 I1ആണ് ഈ രീതിയിൽ ഞാൻ ഇത് അർത്ഥമാക്കുന്നത് ഈ ഭാഗം ഒരു വൈൻഡിങ് ആണെന്നും ഈ ഭാഗം രണ്ട് വൈൻഡിങ് ട്രാൻസ്ഫോർമർ പോലെ ഒരു വൈൻഡിങ് ആണെന്നും അവിടെ പഠിച്ചതും ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ നിലവിലെ പ്രവാഹമാണിത് ഇത് I1 എന്നും ലോഡ് കണക്റ്റുചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് I2 ആണെന്നും ഇത് I2 ആണെന്നും ഇത് ഈ ദിശയിൽ എടുത്താൽ വൈദ്യുതി I1 I2 ആയിരിക്കും എന്നാൽ ഞാൻ ഈ ദിശയിലാണ് എടുത്തതെന്നും അതിനാൽ ഇത് I2 I1 ആയിരിക്കും അതിനാൽ A മുതൽ C വരെ ഇത് A ആണ് ഇത് ആകെ തിരിവുകളുടെ എണ്ണം N1 ഉം B മുതൽ C വരെ ടേണുകളുടെ എണ്ണം N2 ഉം നിലവിലെ A മുതൽ Bവരെ A 1 ഉം C മുതൽ B വരെ ഈ ദിശയിൽ I2 I1 ഉം ഇതാണ് നിലവിലെ I1 ഇതാണ് വോൾട്ടേജ് V1 ഇതാണ് വോൾട്ടേജ് V2 രണ്ട് വൈൻഡിങ് ട്രാൻസ്ഫോർമറിനെ ഇത് വൈൻഡിങ് ആണെന്നും ഇത് മറ്റൊരു വൈൻഡിങ് ആണെന്നും പരിഗണിക്കുമ്പോൾ ഓട്ടോട്രാൻസ്ഫോർമർ കാണുമ്പോൾ നമ്മൾ വ്യത്യസ്ത രീതിയിൽ നിർമ്മിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ അതിനാൽ ഇത് ഒരു ഓട്ടോട്രാൻസ്ഫോർമർ ആണ് എന്നാൽ നമ്മൾ ഇവ 2 താരതമ്യം ചെയ്യണം അതിനാൽ ഈ സാഹചര്യത്തിൽ രണ്ട് വിൻഡിംഗ്ക പ്രതിപാദത്തെ അപേക്ഷിച്ച് ഓട്ടോട്രാൻസ്ഫോർമർ കുറച്ച് കുറഞ്ഞ പ്രതിപ്രവർത്തനം കുറഞ്ഞ നഷ്ടം ചെറിയ ആവേശകരമായ കറന്റ് മികച്ച വോൾട്ടേജ് നിയന്ത്രണം എന്നിവ വിളിക്കുന്നു അതിനാൽ പ്രാഥമിക തിരിവുകൾ N1 ലോവർ വോൾട്ടേജ് സെക്കൻഡറി വിൻഡിംഗ് സെക്ഷൻ BCക്ക് ടാപ്പുചെയ്ത N 2 ടേണുകളുള്ള വിൻഡിംഗ് സെക്ഷൻ ACയോട് ഞാൻ പറഞ്ഞു ഇപ്പോൾ രണ്ട് വൈൻഡിങ് വോൾട്ടേജും ratioയും അതിനാൽ രണ്ട് വൈൻഡിങ് വോൾട്ടേജിനായി രണ്ട് വൈൻഡിങ് ട്രാൻസ്ഫോർമറിന് ഇത് ഒരു വൈൻഡിങ് ആണെന്ന് ഞാൻ പറഞ്ഞു ഇത് ഒരു വൈൻഡിങ് ആണ് ഈ വോൾട്ടേജ് V 1 ഈ വോൾട്ടേജ് V 2 ആണ് അതിനാൽ ഈ വോൾട്ടേജ് V1 V2 ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഈ വോൾട്ടേജ് V1 V 2 ആണ് ഇത് രണ്ട് വിൻഡിംഗ് ട്രാൻസ്ഫോർമറാണെങ്കിൽ ഇത് V 2 ആണ് അതിനാൽ രണ്ട് വിൻഡിംഗ് ട്രാൻസ്ഫോർമറിനായി കെ യഥാർത്ഥത്തിൽ V 1 V 2 V 2 ന് തുല്യമായിരിക്കും അതായത് ഇതിനെ N1 N2 എന്ന് N2 കൊണ്ട് ഹരിക്കാം ഈ ഭാഗം മാത്രമേ ഈ ഭാഗം ഇവിടെ മനസ്സിലാക്കാവൂ ആശയക്കുഴപ്പം ഉണ്ടാകരുത് അതിനാൽ ഈ സാഹചര്യത്തിൽ അതിനാൽ ഈ സാഹചര്യത്തിൽ ഞാൻ K V1 V2 V2 N1 N2 N2 എഴുതുന്നു തീർച്ചയായും N1 നെക്കാൾ വലുതാണ് N1 ഇപ്പോൾ ഓട്ടോട്രാൻസ്ഫോർമർ ഒരു ഓട്ടോട്രാൻസ്ഫോർമറായി എടുക്കുമ്പോൾ അതിന്റെ വോൾട്ടേജും ടേൺസ് അനുപാതവും V K V1 V2 ആയിരിക്കും ഓട്ടോട്രാൻസ്ഫോർമറിനായി രണ്ടിനും ഒരേ winding ഉപയോഗിക്കുന്നു അതിനാൽ ഓട്ടോട്രാൻസ്ഫോർമറിനെ സംബന്ധിച്ചിടത്തോളം ഇത് N1 ആയ ഒരു turn ഇത് മറ്റൊരു turn അതേ winding ഞങ്ങൾ തീർന്നുപോകുന്ന എന്തോ ഒന്ന് അതിനാൽ വോൾട്ടേജ് V2 ആണ് അതിനാൽ ഓട്ടോട്രാൻസ്ഫോർമറിനായി K V1 V1 N1 N2 എന്ന് പറയുക ഓട്ടോട്രാൻസ്ഫോർമറായി എടുക്കുമ്പോൾ ഈ പൂർണ്ണ ട്രാൻസ്ഫോർമറും ഇതിന്റെ ഭാഗവുമാണ് നമ്മൾ ഇതിൽ നിന്ന് ടാപ്പുചെയ്ത വോൾട്ടേജ് ചില ഭാഗങ്ങളിൽ നിന്ന് A C എന്നിവയ്ക്കിടയിൽ B C എന്ന് പറയുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ K V1 V2 N1 N2 അത് 1 നെക്കാൾ വലുതാണ് കാരണം N1 ഡയഗ്രാമിൽ നിന്ന് N2 നേക്കാൾ വലുതാണ് അതിനാൽ K ഇൽ നിന്ന് V 2 കുറയ്ക്കുക V2 എന്ന് എഴുതാൻ കഴിയുന്നത് V 1 V 2 ആയിരുന്നു അതിനാൽ K V 1 V 2 V 2 V 2 അതിനാൽ ഇത് V1 V2 V2 1 എന്ന് എഴുതാം കാരണം V2 ന്റെ V2 V2 V2 1 ആണ് അതിനാൽ V1 V2 V2 k അതിനാൽ കെ കെ കെ 1 ഓട്ടോട്രാൻസ്ഫോർമർ ratioയും രണ്ട് winding ട്രാൻസ്ഫോർമർ അനുപാതവും തമ്മിലുള്ള ബന്ധമാണിത് ഇനി നമുക്ക് 2 ന്റെ വോൾട്ട് ആമ്പിയർ റേറ്റിംഗിനെ രണ്ട് വിൻഡിംഗ് ട്രാൻസ്ഫോർമറായി താരതമ്യം ചെയ്യാം വോൾട്ടേജാണ് ടി ഡബ്ല്യു രണ്ട് വിൻഡിംഗിനെ സൂചിപ്പിക്കുന്നത് TW എന്നത് രണ്ട് വിൻഡിംഗിനെ സൂചിപ്പിക്കുന്നു അതിനാൽ വി 1 വി 2 ഐ 1 ഐ 2 ഐ 1 വി 2 രണ്ട് വിൻഡിംഗ് ട്രാൻസ്ഫോർമറിനായുള്ള വോൾട്ട് ഇത് ഒരു വിൻഡിംഗ് പോലെ ഇതുപോലെ പോയാൽ ഇത് ഒരു വിൻഡിംഗ് ആണ് അതിനാൽ ഇവിടെ വോൾട്ടേജ് ആകെ വി 1 ആണ് ഇത് വി 2 ആണ് അതിനാൽ ഇവിടെ വോൾട്ടേജ് V1 V2 ഉം ഇതിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയും I1 ആണ് ഈ വിൻഡിംഗിനായുള്ള വോൾട്ട് ആമ്പിയർ റേറ്റിംഗാണ് 2 വിൻഡിംഗുകൾ ഈ രീതിയിൽ സങ്കൽപ്പിക്കുക ഇത് മറ്റൊരു വിൻഡിംഗ് ഉണ്ട് അവിടെ വോൾട്ടേജ് V2 I2 I1 റേറ്റിംഗ് വോൾട്ട് ആമ്പിയർ റേറ്റിംഗ് ആണെങ്കിൽ രണ്ടും തുല്യമായിരിക്കണം ഇത് ഒരു വിൻഡിംഗ് പോലെ ഇത് മറ്റൊരു വിൻഡിംഗ് പോലെ ഇത് ഇതുപോലെയാണ് ഇവിടെ ഇത് ഒരു വോൾട്ടേജിന്റെ വോൾട്ടേജാണ് V1 V2 കറന്റ് I1 ഇവിടെ വോൾട്ടേജ് V2 കറന്റ് I2 I1 ഈ രീതിയിൽ സങ്കൽപ്പിക്കുക അതിനാൽ അതുകൊണ്ടാണ് ഇത് V1 V2 I1 I2 I1 V2 ഒരു ഓട്ടോ ട്രാൻസ്ഫോർമറായി ഉപയോഗിക്കുമ്പോൾ വോൾട്ട് ആമ്പിയർ V1 I1 ആയിരിക്കും കാരണം നമ്മൾ ഉപയോഗിക്കുന്ന അതേ വിൻഡിംഗ് അതിനാൽ ഓട്ടോട്രാൻസ്ഫോർമറിനായി ഇതാണ് മുഴുവൻ വിൻഡിംഗ് ഈ രീതിയിൽ ഞാൻ പ്രാഥമികവും ദ്വിതീയവുമാണെന്ന് കരുതുന്നു അതിനാൽ ഓട്ടോട്രാൻസ്ഫോർമർ എടുക്കുകയാണെങ്കിൽ ഇതാണ് V1 current I 1 പറയുന്നു V 1 I 1 output V 2 ആയി എടുക്കാം ഇതിനെ I 2 I 1 എന്ന് വിളിക്കുന്നു അതിനാൽ ഓട്ടോട്രാൻസ്ഫോർമറിനായി V1 I1 V2 V2 I2 യഥാർത്ഥത്തിൽ ഇത് നോക്കുക ഓട്ടോട്രാൻസ്ഫോർമർ inputനായി എനിക്ക് input കാണണം input ഇവിടെ winding ആണ് ഇവിടെ input V1 I1 ഉം ഇവിടെ output നിലവിലെ I2 ഉം ആണ് അതിനാൽ ഇത് V2 V2 I2 ആണ് കാരണം ഇത് loadലേക്ക് പോകുന്ന നിലവിലെ I2 ഉം ഇവിടെ voltage V2 ആണ് അനുയോജ്യമായ കേസ് മാത്രമാണെങ്കിൽ അതിനാൽ ഇത് ഒരു ഓട്ടോ ട്രാൻസ്ഫോർമർ എന്ന നിലയിൽ V2 I2 V1 I ആണ് അതിനാൽ ഇതൊരു ഓട്ടോട്രാൻസ്ഫോർമർ ആണ് അതിനാൽ നമുക്ക് VA 2 winding ട്രാൻസ്ഫോർമർ VA 2 winding ട്രാൻസ്ഫോർമർ V1 V2 I1 വന്നാൽ ഇവിടെ എഴുതാം അതിനാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇവിടെ V 1 കൊണ്ട് ഹരിക്കുക അതിനാൽ ഇത് V1 V2 V1 V1 I1 അല്ലെങ്കിൽ VA 2 winding ട്രാൻസ്ഫോർമർ ഇത് ഈ ആവരണ ചിഹ്നത്തിൽ 1 V2 V1 V1 I1 എഴുതാൻ കഴിയും അല്ലെങ്കിൽ ഓട്ടോട്രാൻസ്ഫോർമറിന്റെ volt ആമ്പിയർ റേറ്റിംഗായ N1 1 N2 N1 V1 I1 എന്നിവയാൽ V1 N2 വഴി V2 എഴുതാം ഇത് VA auto ആണ് കാരണം ഇത് V1 I1 V2 I രണ്ട് ആണ് അതിനാൽ ഇത് അല്ലെങ്കിൽ VA auto ട്രാൻസ്ഫോർമർ ആണ് അതിനാൽ ഇതിനെ ലളിതമാക്കുകയാണെങ്കിൽ VA N1 N2 N1 അതിനാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈ പദം N2 കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ N1 N2 N2 N2 N1 വോൾട് ആമ്പയർ ഓട്ടോ എന്ന് എഴുതാം അതിനാൽ ഈ N1 N2 N2 എന്ത് വിളിക്കണം N2 N1 എന്നത് K K VA ഓട്ടോ യല്ലാതെ മറ്റൊന്നുമല്ല ഈ ബന്ധം K K 1 എന്ന് നൽകിയിരിക്കുന്നു അതിനാൽ ഈ ബന്ധമെല്ലാം ഉപയോഗിക്കുമ്പോൾ VA 2 വൈൻഡിങ് ട്രാൻസ്ഫോർമർ KK VA ഓട്ടോഎന്ന് വിളിക്കും അതിനാൽ ഇത് കെ കെ ഇതിനകം N1 N2 നൽകിയിട്ടുണ്ട് അതിനാൽ ഇത് K K VA ഓട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം VAഓട്ടോ K K 1 എന്ത് കൊണ്ടെന്നാൽ നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു K K1 അത് അന്യോന്യം ഗുണനം ചെയ്യുക ചെയുക കെ കെ 1 ഇടുക അതിനാൽ VA ഓട്ടോ K 1 K VA 2 വൈൻഡിങ്ട്രാൻസ്ഫോർമർ അല്ലെങ്കിൽ VA auto 1 K VA 2 വൈൻഡിങ് ട്രാൻസ്ഫോർമർ ആയിരിക്കും അതായത് VA 2 വൈൻഡിങ് ട്രാൻസ്ഫോർമറിനേക്കാൾ വലുതാണ് VA auto അതായത് ഓട്ടോ ട്രാൻസ്ഫോർമറിന്റെ വോൾട് ആമ്പയർ റേറ്റിങ് 2 വൈൻഡിങ് ട്രാൻസ്ഫോർമറിന്റെ വിദ്യുച്ഛക്തിമാത്രയുടെ ആമ്പയർ ന്റെ അനുപാതം റേറ്റിംഗിനേക്കാൾ വലുതാണ് K 0 നെക്കാൾ വലുതാണ് അതിനാൽ സ്വാഭാവികമായും VA auto 2 winding ട്രാൻസ്ഫോർമറിന്റെ VAക്കാൾ വലുതായിരിക്കും ഇതോടെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ അവസാനിച്ചു കുറച്ച് സംഖ്യകൾ ഇനി നോക്കാം ഇത് വളരെ ലളിതമായ കാര്യമാണ് ഒന്നും ഇല്ല ഓട്ടോട്രാൻസ്ഫോർമറിന്റെ ആശയക്കുഴപ്പം ഉണ്ടാകരുത് ഇത് വളരെ ലളിതമായ കാര്യമാണ് അതിനാൽ ഒരു ഉദാഹരണം എടുക്കുക 4 KVA 200 400 വോൾട്ട് 50 Hertz സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമറിന്റെ ഏകദേശ തുല്യ സർക്യൂട്ടിന്റെ പാരാമീറ്ററുകൾ നൽകിയിരിക്കുന്ന പാരാമീറ്ററുകൾ ഇവയാണ് Re Xe R c നൽകിയ 600 ohm X m നൽകിയിരിക്കുന്നു ഇപ്പോൾ 200 വിദ്യുച്ഛക്തിമാത്രയുടെ അനുപാതം വോൾട്ടേജ് പ്രാഥമിക തലത്തിൽ പ്രയോഗിക്കുമ്പോൾ നിലവിലെ 10 ampere 0 8 പവർ ഫാക്ടർ ലാഗിങ് ഫ്ളോ ദ്വിതീയ തലത്തിലെ വിൻഡിംഗിൽ കണക്കാക്കേണ്ടതുണ്ട് ഇതാണ് പ്രശ്നം 200 വിദ്യുച്ഛക്തിമാത്രയുടെ അനുപാതം കണക്കാക്കുമ്പോൾ വൈദ്യുതിയുടെ ചാലകശക്തി പ്രാഥമിക തലത്തിൽ 10 ampere 0 8 വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ പവർ ഫാക്ടർ ലാഗിംഗ് ദ്വിതീയ വിൻഡിംഗിൽ ഒഴുകുന്നു ദ്വിതീയ വശത്തുള്ള പ്രാഥമിക ടെർമിനൽ വോൾട്ടേജിലെ വൈദ്യുതി കണക്കാക്കേണ്ടതുണ്ട് ഇത് വളരെ ലളിതമാണ് ഇതാണ് സർക്യൂട്ട് അതിനാൽ ഇതാണ് സമതുല്യമായ മണ്ഡലം ഇത് R e 1 X e 1 ആണ് ഈ വശത്തുള്ള ഒരു ലോഡ് നൽകിയിരിക്കുന്നു അതിനാൽ പ്രാഥമിക വശത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം നൽകിയിരിക്കുന്നു അതിനാൽ ഇത് ആ ഭാഗത്തേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ അത് V2 K V2 ആയി കാണിക്കുകയും വരികൾ ലോഡ് കാണിക്കുകയും ചെയ്യും നേരത്തെ ഈ ഭാഗത്ത് ഈ സർക്യൂട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് 2 നൂറ് വോൾട്ട് പാരാമീറ്ററുകൾ R e 1 X e 1 R c X m എല്ലാം നൽകിയിരിക്കുന്നു അതിനാൽ I2 ന് 10 ആമ്പിയറും നൽകിയിരിക്കുന്നു 8 പവർ ഫാക്ടർ ലാഗിംഗിൽ I2 ന് N10 ampere നൽകിയിരിക്കുന്നു അതിനാൽ I2 ദ്വിതീയ ഭാഗത്താണ് അതിനാൽ I2 അതിനെ പ്രാഥമിക ഭാഗത്തേക്ക് പരാമർശിക്കണം അതിനാൽ I2 എന്നത് I2 N2 N1 ആയിരിക്കും കാരണം N1 I2 N2 I2 അതിനാൽ I 2 ന് 0 8 പവർ ഫാക്ടർ ലാഗിംഗിൽ 20 ampere ലഭിക്കും അതായത് 36 87 ഡിഗ്രി പിറകോട്ട് അതായത് I2 എന്നത് 16 j 12 Ampere ആയിരിക്കും നേരിട്ട് ഇപ്പോൾ ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിനാൽ നമ്മൾ നേരിട്ട് എഴുതുകയാണ് Ic 200600 ആയിരിക്കും കാരണം R c 600 Ohm ആയിരിക്കും ടെർമിനൽ വോൾട്ടേജ് 200 ആണ് അതിനാൽ ഇതും I m 200 300 ഇത്രയും അതിനാൽ I c I0 I c j I m അതിനാൽ ഇത് നിലവിലെ I ആണ് അത് ലോഡ് കറന്റ് I0 അല്ല അതിനാൽ I1 I0 I2 ഇവ രണ്ടും ചേർത്താൽ I1 20 67 angle 37 8 degree ampere V2 എന്നിവ ലഭിക്കും ഇത് മുമ്പ് ഒരു പ്രശ്നം പരിഹരിച്ചതായി നമുക്കറിയാം വ്യുൽപ്പന്നവും കണ്ടു V2 എന്നത് V1 I2 R e 1 j X e 1 ആയിരിക്കും അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ V2 പരിഹരിച്ചതിന് ശേഷം R193 2 angle 1 2 degree ലഭിക്കും V2 K V2 അത് നമുക്കറിയാം അതിനാൽ V 2 386 4 angle 1 2 degree volt ആയിരിക്കും കാരണം K പകുതി ആണ് അതിനാൽ ആ volt അനുപാതം 200400 നൽകുന്നു അതിനാൽ ഈ പ്രശ്നം ഒരു ലളിതമായ പ്രശ്നമാണ് ഇപ്പോൾ ഉദാഹരണം 11 യൂണിറ്റി പവർ ഫാക്ടറിൽ ഒരു ട്രാൻസ്ഫോർമറിന്റെ പരമാവധി കാര്യക്ഷമത 15 KVAയിൽ 0 98 ആണ് പകൽ സമയത്ത് ഇത് ഇനിപ്പറയുന്ന രീതിയിൽ ലോഡുചെയ്യുന്നു കാരണം ഞങ്ങൾ ദിവസം മുഴുവൻ കാര്യക്ഷമത കണ്ടെത്തി അതിനാൽ 10 മണിക്കൂർ അത് 3 കിലോവാട്ട് പവർ ഫാക്ടർ 0 6 ആയിരുന്നു ലാഗിംഗ് ഇത് പൊതുവെ പിന്നിലാണ് എന്നാൽ ഇവിടെ പരാമർശിച്ചിട്ടില്ല അതിനാൽ 5 മണിക്കൂർ 10 കിലോവാട്ട് പവർ ഫാക്ടർ 0 8 ഉം 5 മണിക്കൂറും 15 കിലോവാട്ട് പവർ ഫാക്ടർ 0 9 4 മണിക്കൂർ load ഇല്ല അതിനാൽ ഇത് 24 മണിക്കൂറും ചേർത്ത് ദിവസം മുഴുവൻ കാര്യക്ഷമത കണ്ടെത്തുകയാണെങ്കിൽ ആകെ അതിനാൽ 10 മണിക്കൂർ 3 കിലോവാട്ട് അതിനാൽ അടിസ്ഥാനപരമായി 3 കിലോവാട്ട് 10 എന്നാൽ 30 കിലോവാട്ട് മണിക്കൂർ അതിനാൽ സമാനമായി ഇത് പോലെ അതിനാൽ ട്രാൻസ്ഫോർമറിന്റെ പരമാവധി കാര്യക്ഷമത 0 ഏകീകൃത പവർ ഫാക്ടറിൽ 15 KVAയാണ് പരമാവധി കാര്യക്ഷമത സംഭവിക്കുന്ന ലോഡ് ഐക്യ പവർ ഫാക്ടറിൽ 15 KVAയിൽ 0 98 എന്ന പരമാവധി കാര്യക്ഷമത അതിനർത്ഥം പരമാവധി കാര്യക്ഷമതയിൽ ഇരുമ്പ് നഷ്ടം നമുക്ക് ലഭിച്ച ചെമ്പ് നഷ്ടം പരമാവധി കാര്യക്ഷമതയ്ക്കായി nu zeta max X p f l X p f l 2 W i ഉരുത്തിരിഞ്ഞത് output 2 W i output ആണെന്ന് നമുക്കറിയാം ഇപ്പോൾ യൂണിറ്റി പവർ ഫാക്ടറിൽ output 15 KVA അതിനാൽ 15 1000 1 അതാണ് wattന്റെ ഭൂരിഭാഗവും 1000 കൊണ്ട് ഗുണിച്ചാൽ 15 1000 1 2 W i 0 98 കാരണം പരമാവധി കാര്യക്ഷമത 0 98 അതിൽ നിന്ന് നമുക്ക് W i 153 watt ലഭിക്കും അതിനാൽ 0 അതിനാൽ പരമാവധി കാര്യക്ഷമതയിൽ ചെമ്പ് നഷ്ടം ഇരുമ്പ് നഷ്ടം ചെമ്പ് നഷ്ടം അതിനാൽ ഇത് 0 153 കിലോവാട്ട് ആണ് ഇപ്പോൾ 10 മണിക്കൂർ ലോഡുള്ള ഇടവേള ഒന്ന് 3 0 6 ആണ് അത് 5 KVA ആണ് കാരണം പവർ ഫാക്ടർ 0 6 ഉം 3 കിലോവാട്ട് അതിനാൽ 5 KVA അതിനാൽ ചെമ്പ് നഷ്ടം ഈ ലോഡിൽ കണ്ടെത്തണം ചെമ്പ് നഷ്ടം ലോഡിന്റെ 2 ആനുപാതികമാണ് അതിനാൽ ഇത് റേറ്റു ചെയ്ത KVA 15 നൽകിയിട്ടുണ്ടെന്നും ആ സമയത്ത് ലോഡ് 5 ആണെന്നും ഞങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് അതിനാൽ ഇത് 515 2 0 153 ആയിരിക്കും അതിനാൽ ഇത് 0 017 കിലോവാട്ട് ആണ് കാരണം ചെമ്പിന്റെ നഷ്ടം loadനൊപ്പം വ്യത്യാസപ്പെടുന്നു അതിനാൽ ആ സമയത്ത് ഇത് കിലോവാട്ട് പവർ ഫാക്ടർ കൊണ്ട് ഹരിച്ചാൽ KVA നൽകും അതിനാൽ അതുപോലെ തന്നെ ഊർജ്ജനഷ്ടം 0 017 10 ആയിരിക്കും അതിനാൽ അതായത് 0 17 കിലോവാട്ട് മണിക്കൂർ അതിനാൽ ഇത് ഊർജ്ജ നഷ്ടമാണ് അതുപോലെ ഇത് നോക്കുകയാണെങ്കിൽ 3 കിലോവാട്ട് പവർ ഫാക്ടർ നൽകിയാൽ 10 മണിക്കൂർ അതിനാൽ ആ ലോഡ് 3 കിലോവാട്ട് ആയിരുന്നു അതിനാൽ ഞങ്ങൾ ഇത് KVAയിലേക്ക് പരിവർത്തനം ചെയ്തു അത് ലോഡിന്റെ 2 നെ ആശ്രയിച്ചിരിക്കുന്നു ആ സമയത്ത് ഊർജ്ജ നഷ്ടമുണ്ട് എന്നാൽ ഇത് ഒരു ലളിതമായ ലോഡ് ആണെങ്കിൽ ഒന്നും നൽകുന്നില്ല അതിനാൽ 3 കിലോവാട്ട് 10 എന്നതിനർത്ഥം 30 കിലോവാട്ട് മണിക്കൂർ ആയിരിക്കും തുടക്കത്തിൽ നമ്മൾ കണ്ടത് DC സർക്യൂട്ട് വിശകലനത്തിനായി എന്തെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അതിനാൽ സമാനമായി 5 മണിക്കൂർ ഇടവേള അതിനാൽ ലോഡ് പന്ത്രണ്ട് പോയിന്റ് 5 KVA ആണ് കാരണം 10 മുതൽ 0 8 വരെ 0 8 ആണ് പവർ ഫാക്ടർ അതിനാൽ ചെമ്പ് നഷ്ടം 12 5 N15 2 0 153 ആയിരിക്കും അതിനാൽ 0 1042 കിലോവാട്ട് അതിനാൽ ഊർജ്ജനഷ്ടം 5 0 1042 അതായത് 0 521 കിലോവാട്ട് മണിക്കൂർ അതുപോലെ ഇടവേള മൂന്ന് പവർ ഫാക്ടർ 0 9 അത് 18 കിലോവാട്ട് അതിനാൽ 18 0 9 അതിനാൽ 20 കിലോവോൾട്ട് ആമ്പിയർ അതിനാൽ ആ സമയം ചെമ്പ് നഷ്ടം 20 N15 ആയിരിക്കും അതായത് റേറ്റിംഗ് 15 ന് 15 ആണെങ്കിൽ ട്രാൻസ്ഫോർമർ ഓവർലോഡാണ് അതിനർത്ഥം ട്രാൻസ്ഫോർമർ ഓവർലോഡ് ആണെന്നാണ് അതിനാൽ 20 15 2 0 153 അതിനാൽ 0 272 കിലോവാട്ട് അതിനാൽ ഊർജ്ജനഷ്ടം 5 0 272 ആയിരിക്കും അതിനാൽ 1 36 കിലോവാട്ട് മണിക്കൂർ അതിനാൽ ഇടവേള നാല് 4 മണിക്കൂർ ലോഡ് ഇല്ല ചെമ്പ് നഷ്ടം 0 ഊർജ്ജ നഷ്ടം 0 ആണ് ഇപ്പോൾ ഇരുമ്പിന്റെ നഷ്ടം മൂലം ഊർജ്ജനഷ്ടം ദിവസം മുഴുവൻ അതിനാൽ 0 153 ഇരുമ്പിന്റെ നഷ്ടം 0 153 ഉം 24 മണിക്കൂറും വർദ്ധിച്ചതിനാൽ ഇത് 3 672 കിലോവാട്ട് മണിക്കൂർ ആയിരിക്കും അതിനാൽ ദിവസം മുഴുവൻ ചെമ്പ് നഷ്ടപ്പെടുന്നതുമൂലം ഊർജ്ജനഷ്ടം 0 17 0 521 1 36 ചേർക്കുക 2 051 കിലോവാട്ട് മണിക്കൂർ അതിനാൽ ചെമ്പ് നഷ്ടവും ഇരുമ്പിന്റെ നഷ്ടവും മൂലം ഉണ്ടാകുന്ന ഊർജ്ജനഷ്ടം 2 051 3 672 ചേർക്കുക ദിവസം മുഴുവനുമുള്ള output അതിനാൽ ഇത് 3 10 ആണ് അതായത് output 10 5 18 5 തുടക്കത്തിൽ 10 30 കിലോവാട്ട് മണിക്കൂർ 5 10 18 5 ഇതാണ് output ഇത് ചെമ്പ് നഷ്ടം ഇത് 170 കിലോവാട്ട് മണിക്കൂറാണ് അതിനാൽ ഉത്പാദനത്തിന്റെ കാര്യക്ഷമത എന്നത് ഉത്പാദനംനിക്ഷേപം കണക്കാക്കുമ്പോൾ നഷ്ടങ്ങൾ ആയിരിക്കും അതിനാൽ ഉത്പാദനം 170 ആണ് ഇത് ചെമ്പ് നഷ്ടമാണ് ഇത് ഊർജ്ജത്തിന്റെ കാര്യമാണ് അതിനാൽ ഇത് 96 7 ശതമാനമായി മാറും അതിനാൽ ഓട്ടോട്രാൻസ്ഫോർമറും ഇതുപോലുള്ള ചില 1 അല്ലെങ്കിൽ 2 ഉദാഹരണങ്ങൾ കൂടി ഉണ്ട് അടുത്ത വീഡിയോ പ്രഭാഷണത്തിൽ നമുക്ക് കാണാം വളരെ നന്ദി